നമസ്കാരം ഈ ആഴ്ചയിൽ നമ്മൾ രണ്ട് പോർട്ട് പാരാമീറ്ററുകളെക്കുറിച്ച് ചർച്ച ചെയ്തു കൃത്യമായി പറഞ്ഞാൽ z പാരാമീറ്ററുകൾ y പാരാമീറ്ററുകൾ തുടർന്ന് h പാരാമീറ്ററുകൾ g പാരാമീറ്ററുകൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ട്രാൻസ്മിഷൻ പാരാമീറ്ററുകളായ ടി പാരാമീറ്ററുകളെക്കുറിച്ച് ചർച്ച ചെയ്തു ഇപ്പോൾ സിസ്റ്റം വളരെ വലുതും സങ്കീർണ്ണവുമാകുമ്പോൾ ഒരു രണ്ട് പോർട്ട് നെറ്റ്വർക്ക് ഇടുന്നതിലൂടെ നമുക്ക് ലളിതമായി വിശകലനം ചെയ്യാൻ കഴിയില്ല അതിനാൽ പൂർണ്ണ സിസ്റ്റത്തെ അനേക ടു പോർട്ട് നെറ്റ്വർക്കുകളായി വിഭജിക്കാനും അവ തമ്മിൽ സീരീസായി സമാന്തരമായി series parallel അല്ലെങ്കിൽ ഒരുപക്ഷേ കാസ്കേഡഡ് രൂപത്തിൽ ബന്ധിപ്പിക്കാനും കഴിയും വിവിധ രണ്ട് പോർട്ട് നെറ്റ്വർക്കുകളെ എങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കും എന്നതിനെക്കുറിച്ചും രണ്ട് പോർട്ട് നെറ്റ്വർക്കുകളുടെ സീരീസ് സമാന്തര അല്ലെങ്കിൽ കാസ്കേഡിംഗ് seriesparallel or cascading പോലുള്ള വ്യത്യസ്തമായ ടോപ്പോളജിക്കൽ അവസ്ഥയിലെ മികച്ച ഐച്ഛികങ്ങൾ എന്താണെന്നും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും അതിനാൽ നെറ്റ്വർക്കുകളുടെ പരസ്പരബന്ധം ആരംഭിക്കാം അതിനാൽ വിശകലനത്തിനും രൂപകൽപ്പനയ്ക്കുമായി വലിയ സങ്കീർണ്ണമായ ശൃംഖലയെ ഉപ നെറ്റ്വർക്കുകളായി വിഭജിക്കാമെന്ന് നമ്മൾ ചർച്ച ചെയ്തു ഉപ നെറ്റ്വർക്കുകളെ രണ്ട് പോർട്ട് നെറ്റ്വർക്കുകളുടെ മാതൃകയാക്കാൻ കഴിയും അതിനാൽ വലുതും സങ്കീർണ്ണവുമായ നെറ്റ്വർക്കിൽ നിന്ന് നമ്മൾ സൃഷ്ടിക്കുന്ന ഉപ നെറ്റ്വർക്കുകൾ നമ്മൾ അവയെ രണ്ട് പോർട്ട് നെറ്റ്വർക്കായി പരിവർത്തനം ചെയ്യും യഥാർത്ഥ നെറ്റ്വർക്ക് കിട്ടുന്നതിന് നമ്മൾ അവയെ പരസ്പരം ബന്ധിപ്പിക്കും അതിനാൽ രണ്ട് പോർട്ട് നെറ്റ്വർക്കുകളെ നിർമ്മാണ ബ്ലോക്കുകളായി കണക്കാക്കാമെന്നും സങ്കീർണ്ണമായ ഒരു നെറ്റ്വർക്ക് രൂപീകരിക്കുന്നതിന് അവയെ പരസ്പരം ബന്ധിപ്പിക്കാമെന്നും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും നമ്മൾ ചർച്ച ചെയ്തതുപോലെ പരസ്പരബന്ധം സീരീസ് സമാന്തര അല്ലെങ്കിൽ കാസ്കേഡിംഗ് seriesparallel or cascade രീതിയിൽ ആയിരിക്കാം ഇപ്പോൾ പരസ്പരബന്ധിതമായ നെറ്റ്വർക്കിനെ 6 പാരാമീറ്റർ സെറ്റുകളിലെ ഏതെങ്കിലും വച്ച് വിവരിക്കാൻ കഴിയുമെങ്കിലും അവ എന്തായിരുന്നു z പാരാമീറ്ററുകളെക്കുറിച്ച് നമ്മൾ ചർച്ചചെയ്തു തുടർന്ന് y പാരാമീറ്ററുകൾ പിന്നെ h പാരാമീറ്ററുകൾ പിന്നെ g പാരാമീറ്ററുകൾ പിന്നെ ട്രാൻസ്മിഷൻ പാരാമീറ്ററുകൾ വിപരീത ട്രാൻസ്മിഷൻ പാരാമീറ്ററുകൾ എന്നിവയെക്കുറിച്ച് നമ്മൾ ചർച്ചചെയ്തു അതിനാൽ ഇവ നമ്മളുടെ മുൻ പ്രഭാഷണങ്ങളിൽ ചർച്ച ചെയ്ത രണ്ട് പോർട്ട് നെറ്റ്വർക്കുകളെ അടിസ്ഥാനമാക്കിയുള്ള 6 പാരാമീറ്ററുകളാണ് ഇപ്പോൾ ഈ 6 പാരാമീറ്റർ സെറ്റുകളുടെ സഹായത്തോടെ നമുക്ക് പരസ്പരബന്ധിതമായ ഏതെങ്കിലും നെറ്റ്വർക്കിനെ വിവരിക്കാൻ കഴിയും എന്നാൽ ഒരു നിശ്ചിത നേട്ടമുണ്ടാകാൻ സാധ്യതയുള്ള ചില സെറ്റുകൾ അല്ലെങ്കിൽ പാരാമീറ്ററുകൾ ഉണ്ട് നെറ്റ്വർക്ക് ശ്രേണിയിലാണെന്ന് കരുതുക രണ്ട് പോർട്ട് നെറ്റ്വർക്കുകൾ ഇവയാണ് നമ്മൾ സൃഷ്ടിച്ച ഉപ നെറ്റ്വർക്കുകൾ ഈ ഉപ നെറ്റ്വർക്കുകൾ ശ്രേണിയിലാണെങ്കിൽ അവയുടെ വ്യക്തിഗത z പാരാമീറ്ററുകൾ ചേർത്ത് വലിയ നെറ്റ്വർക്കിന്റെ z പാരാമീറ്ററുകൾ കിട്ടും നെറ്റ്വർക്കുകൾ ഉപ നെറ്റ്വർക്കുകൾ സീരീസിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന അത്തരം സാഹചര്യങ്ങളിൽ വലിയ നെറ്റ്വർക്കിന്റെ മൊത്തത്തിലുള്ള പാരാമീറ്റർ കണ്ടെത്താൻ z പാരാമീറ്ററുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതുപോലെ രണ്ട് പോർട്ട് നെറ്റ്വർക്കുകൾ സമാന്തരമായി ബന്ധിപ്പിക്കുമ്പോൾ വലിയ നെറ്റ്വർക്കിന്റെ y പാരാമീറ്ററുകൾ നൽകുന്നതിന് y പാരാമീറ്ററുകൾ കൂട്ടുന്നത് വഴി കഴിയും ഒരു നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട് മറ്റ് ഏതെങ്കിലും രണ്ട് പോർട്ട് നെറ്റ്വർക്കിലേക്കുള്ള ഇൻപുട്ടായി പോകുന്ന ചില കാസ്കേഡഡ് നെറ്റ്വർക്കുകളും ഉണ്ടാകാം അത്തരം സന്ദർഭങ്ങളിൽ വലിയ നെറ്റ്വർക്കിന്റെ ട്രാൻസ്മിഷൻ പാരാമീറ്ററുകൾ ലഭിക്കുന്നതിന് വ്യക്തിഗത ട്രാൻസ്മിഷൻ പാരാമീറ്ററുകൾ ഒരുമിച്ച് ഗുണിക്കാം സീരീസ് സമാന്തര കാസ്കേഡഡ് കോമ്പിനേഷനുകളായ seriesparallel cascaded combinations ഈ 3 സംയുക്തങ്ങൾ സർക്യൂട്ട് വിശകലനത്തിന് വളരെ പ്രധാനമാണ് അതിനാൽ വിവിധ നെറ്റ്വർക്കുകൾ സീരീസ് സമാന്തര കാസ്കേഡഡ് seriesparallel or cascaded രീതിയിൽ പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ ഈ പാരാമീറ്ററുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇപ്പോൾ നമ്മൾ കാണും അതിനാൽ നെറ്റ്വർക്ക് സീരീസിൽ കണക്റ്റു ചെയ്യുന്ന ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം അതിനാൽ ഈ ചിത്രം നിങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് രണ്ട് നെറ്റ്വർക്കുകൾ ഉണ്ട് ഒന്ന് നെറ്റ്വർക്ക് എ രണ്ടാമത്തേത് നെറ്റ്വർക്ക് ബി ഇപ്പോൾ ഇവ രണ്ടും ശ്രേണിയിലാണ് കാരണം എന്നീ വ്യക്തിഗത വോൾട്ടേജുകൾ കൂട്ടുമ്പോൾ സമ്പൂർണ്ണ നെറ്റ്വർക്കിന്റെ വോൾട്ടേജ് ആയ നൽകുന്നു കൂടാതെ നെറ്റ്വർക്കിൽ ഒഴുകുന്ന കറന്റ് നെറ്റ്വർക്ക് ബിയിലും ഒഴുകും കാരണം സീരീസ് നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ എല്ലാ നെറ്റ്വർക്കുകളിലൂടെയും ഒഴുകുന്ന കറന്റ് തുല്യമാണ് അതിനാൽ സമ്പൂർണ്ണ നെറ്റ്വർക്ക് ലഭിക്കുന്നതിന് നിങ്ങൾ വോൾട്ടേജുകൾ ചേർക്കുന്നതിനാൽ നെറ്റ്വർക്ക് സീരീസിൽ കണക്റ്റുചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ നമുക്ക് പറയാൻ കഴിയും മൊത്തം വോൾട്ടേജ് എന്ന് നമുക്കറിയാവുന്നതുപോലെ രണ്ട് നെറ്റ്വർക്കുകൾക്കുമായി വ്യക്തിഗത z പാരാമീറ്റർ സമവാക്യങ്ങൾ നമ്മൾ ആദ്യം എഴുതുന്നു നമുക്ക് എഴുതാം അതുപോലെ അതിനാൽ ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ നെറ്റ്വർക്കിന്റെ z പാരാമീറ്റർ സമവാക്യങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ട സമവാക്യമായിരിക്കും അതുപോലെ N b ആയ രണ്ടാമത്തെ രണ്ട് പോർട്ട് നെറ്റ്വർക്കിനായി നമുക്ക് എഴുതാം ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രം കാണുകയാണെങ്കിൽ രണ്ട് പോർട്ട് നെറ്റ്വർക്കുകൾ സീരീസിൽ കണക്റ്റുചെയ്തിരിക്കുന്നതിനാൽ അതായത് രണ്ട് പോർട്ടുകളിലും ഒരേ കറന്റ് ഒഴുകുന്നു അതുപോലെ അതിനാൽ നമ്മൾ നെറ്റ്വർക്ക് എ നെറ്റ്വർക്ക് ബി എന്നിവയ്ക്കായി തനിയെ എഴുതിയ ഈ നാല് സമവാക്യങ്ങളും ലളിതമാക്കാൻ ഈ രണ്ട് സമവാക്യങ്ങളും ഉപയോഗിക്കാം

എന്നിവ നമുക്കറിയാമെന്നതിനാൽ ഇങ്ങനെ എഴുതാം

ഇപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന ഈ 2 സമവാക്യങ്ങൾ കണ്ടാൽ അഥവാ ചുരുക്കത്തിൽ നെറ്റ്വർക്ക് a b എന്നിവയുടെ വ്യക്തിഗത z പാരാമീറ്റർ മാട്രിക്സിന്റെ സംഗ്രഹമാണ് മൊത്തത്തിലുള്ള നെറ്റ്വർക്കിന്റെ z പാരാമീറ്റർ മാട്രിക്സ് എന്ന് നമുക്ക് എഴുതാം അതിനാൽ മൊത്തത്തിലുള്ള നെറ്റ്വർക്കിന്റെ z പാരാമീറ്ററുകൾ വ്യക്തിഗത നെറ്റ്വർക്കുകളുടെ z പാരാമീറ്ററുകളുടെ ആകെത്തുകയാണെന്ന് ഇതുപയോഗിച്ച് നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതെല്ലാം രണ്ട് പോർട്ട് നെറ്റ്വർക്കുകൾക്കാണ് സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള നെറ്റ്വർക്കിന്റെ ഭാഗമായ n സെറ്റ് ഉപ നെറ്റ്വർക്കുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയും ഇപ്പോൾ മറ്റേതെങ്കിലും പാരാമീറ്ററുകൾ h പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ അതുപയോഗിച്ച് രണ്ട് പോർട്ട് നെറ്റ്വർക്കുകൾ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ നമുക്ക് എന്തുചെയ്യാൻ കഴിയും നെറ്റ്വർക്കുകൾ ശ്രേണിയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാമെന്നതിനാൽ ഏറ്റവും മികച്ചത് എന്തെന്നാൽ ആദ്യം നമുക്ക് h പാരാമീറ്ററുകൾ വ്യക്തിഗത നെറ്റ്വർക്കുകളുടെ അനുബന്ധ z പാരാമീറ്ററുകളായി പരിവർത്തനം ചെയ്യാം തുടർന്ന് നെറ്റ്വർക്കിന്റെ മൊത്തത്തിലുള്ള z പാരാമീറ്ററുകൾ ലഭിക്കുന്നതിന് z പാരാമീറ്ററുകളുടെ സംഗ്രഹം ഉപയോഗിക്കുക ഒരു സീരീസ് നെറ്റ്വർക്കിനുളള സർക്യൂട്ടിൻറെ എല്ലാ പാരാമീറ്ററുകളും അതായത് മൊത്തത്തിലുള്ള നെറ്റ്വർക്കിന്റെ z പാരാമീറ്റർ ലഭിക്കുമ്പോൾ നമുക്ക് ഈ z പാരാമീറ്ററിനെ വീണ്ടും h പാരാമീറ്ററിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും നമുക്ക് നെറ്റ്വർക്കിൽ ഉണ്ടായിരിക്കാവുന്ന ഏത് തരത്തിലുള്ള പരസ്പര യോജിപ്പിക്കലിനും ഇത് ബാധകമാണ് അതിനാൽ ഇത് y അല്ലെങ്കിൽ g അല്ലെങ്കിൽ ഉപ നെറ്റ്വർക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റേതെങ്കിലും പാരാമീറ്ററുകൾക്കും സമാനമാണ് അതിനാൽ നിങ്ങൾക്ക് ആദ്യം അവയെ z പാരാമീറ്ററുകളിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും തുടർന്ന് അവ കൂട്ടി ലഭിക്കുന്ന അവസാന z പാരാമീറ്റർ മാട്രിക്സും h പാരാമീറ്റർ മാട്രിക്സിലേക്ക് തിരികെ മാറ്റാം ഇപ്പോൾ നെറ്റ്വർക്ക് സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന രണ്ടാമത്തെ കേസ് പരിഗണിക്കാം ഇവിടെ നമുക്ക് നെറ്റ്വർക്ക് എ നെറ്റ്വർക്ക് ബി എന്നിവയുണ്ട് അതിനാൽ അവയുടെ പോർട്ട് വോൾട്ടേജുകൾ തുല്യമാകുമ്പോൾ ഇവ സമാന്തരമായി ബന്ധിപ്പിക്കുകയും വലിയ നെറ്റ്വർക്കുകളുടെ പോർട്ട് കറന്റുകൾ വ്യക്തിഗത പോർട്ട് കറന്റുകളുടെ ആകെത്തുകയാണ് അതിനാൽ രണ്ട് ഉപ നെറ്റ്വർക്കുകൾക്കും എന്നിവ പ്രയോഗിക്കുന്നു കൂടാതെ എന്നാണ് ഇതിനർത്ഥം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ സർക്യൂട്ടിന് ഒരു പൊതു റഫറൻസ് ഉണ്ടായിരിക്കണം അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് രണ്ട് ഉപ നെറ്റ്വർക്കുകളുടെയും പൊതുവായ റഫറൻസാണ് അതിനാൽ നമ്മൾ അവയെ ഒന്നിച്ച് ബന്ധിപ്പിക്കും അങ്ങനെ മൊത്തത്തിലുള്ള നെറ്റ്വർക്കിന്റെ പൊതുവായ റഫറൻസ് ലഭിക്കും അതിനാൽ നിങ്ങൾ അവയെല്ലാം സമാന്തരമായി ബന്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ പൊതുവായ നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കും അങ്ങനെ ഉപ നെറ്റ്വർക്കുകൾ സമാന്തരമായിരിക്കും ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മൊത്തത്തിലുള്ള നെറ്റ്വർക്കിന്റെ y പാരാമീറ്ററുകൾ കണ്ടെത്താൻ നമ്മൾ y പാരാമീറ്റർ സമവാക്യങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഈ 2 നെറ്റ്വർക്കുകളും സമാന്തരമായതിനാൽ നമ്മൾ ആദ്യത്തെ y പാരാമീറ്റർ സമവാക്യങ്ങൾ ഉപയോഗിക്കും അതിനാൽ നെറ്റ്വർക്കിനായി നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക

ഇപ്പോൾ നെറ്റ്വർക്ക് ബി യ്ക്കായി നമുക്ക് വീണ്ടും സമവാക്യങ്ങൾ എഴുതാം

ഇപ്പോൾ ചിത്രം കാണുമ്പോൾ രണ്ട് നെറ്റ്വർക്കുകളും സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും

ഇപ്പോൾ ഈ 2 സമവാക്യങ്ങളിൽ മൂല്യങ്ങൾ വ്യക്തിഗത കറന്റുകൾ ഇടുകയാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും മൊത്തത്തിലുള്ള നെറ്റ്വർക്കിന്റെ y പാരാമീറ്ററുകൾ ഇവയാണ്

ചുരുക്കത്തിൽ മൊത്തത്തിലുള്ള നെറ്റ്വർക്കിന്റെ y പാരാമീറ്റർ സമവാക്യം വ്യക്തിഗത ഉപ നെറ്റ്വർക്കുകളുടെ y പാരാമീറ്റർ മാട്രിക്സിന്റെ സംഗ്രഹമാണ് മൊത്തത്തിലുള്ള നെറ്റ്വർക്കിന്റെ y പാരാമീറ്ററുകൾ വ്യക്തിഗത നെറ്റ്വർക്കുകളുടെ y പാരാമീറ്ററുകൾ കൂട്ടുന്നത് വഴി കണക്കാക്കാം ഇപ്പോൾ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഏത് n എണ്ണം രണ്ട് പോർട്ട് നെറ്റ്വർക്കുകളിലേയ്ക്കും ഇത് വീണ്ടും വ്യാപിപ്പിക്കാൻ കഴിയും ഇപ്പോൾ കാസ്കേഡഡ് രീതിയിൽ നെറ്റ്വർക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന മൂന്നാമത്തെ കേസ് നമുക്ക് നോക്കാം കാസ്കേഡഡ് രീതി എന്നാൽ നെറ്റ്വർക്ക് എയുടെ ഔട്ട്പുട്ട് നെറ്റ്വർക്ക് ബിയ്ക്ക് ഇൻപുട്ടായി നൽകുന്നതാണ് അതിനാൽ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ കറൻറ് എന്നിവ മൊത്തത്തിലുള്ള നെറ്റ്വർക്കിന്റെ മൊത്തത്തിലുള്ള വോൾട്ടേജും കറന്റുമാണെന്ന് നമ്മൾ പറയുന്നു കൂടാതെ മൊത്തത്തിലുള്ള നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട് പോർട്ട് കറന്റും വോൾട്ടേജും ആണ് ഇപ്പോൾ നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ടായ നെറ്റ്വർക്ക് b യുടെ ഇൻപുട്ടായി നൽകും ഇതിൽ നിന്ന് നമുക്ക് അത് പറയാൻ കഴിയും അതിനാൽ ഈ രണ്ട് പോർട്ട് നെറ്റ്വർക്കുകൾക്കായി ആദ്യം നെറ്റ്വർക്ക് സമവാക്യങ്ങൾ എഴുതാം നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക നെറ്റ്വർക്ക് എയ്ക്ക് ആയി എഴുതാം ഇൻപുട്ട് സൈഡ് വെക്ടറായ നെറ്റ്വർക്കിന്റെ എബിസിഡി ഗുണം നെറ്റ്വർക്ക് എയുടെ ഔട്ട്പുട്ട് വെക്റ്റർ ആണ് അതുപോലെ നെറ്റ്വർക്ക് ബി യ്ക്കും ഇൻപുട്ട് വെക്ടറായ നെറ്റ്വർക്ക് ബി യ്ക്കുള്ള എബിസിഡി പാരാമീറ്ററുകൾ ഗുണം ഔട്ട്പുട്ട് വെക്റ്റർ ഇതിന് തുല്യമായി എഴുതാം ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്താണ് നിരീക്ഷിക്കാൻ കഴിയുന്നത് നമുക്ക് ഇത് പറയാൻ കഴിയും സമാനമായി അതുപോലെ ഔട്ട്പുട്ട് ഭാഗത്ത് നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക ഇപ്പോൾ നമുക്ക് ഈ വിവരങ്ങൾ ചിത്രത്തിൽ നിന്ന് ഉണ്ട് നമുക്ക് എഴുതാൻ കഴിയുന്ന ഈ രണ്ട് സമവാക്യങ്ങളും കണ്ടാൽ നമുക്ക് ഇത് എഴുതാം എന്ന് നമുക്ക് അറിയാവുന്നതിനാൽ എന്നാൽ അതിനാൽ ഇപ്പോൾ ഒടുവിൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത് നമുക്ക് ഇത് ലഭിക്കുന്നു

അതിനാൽ ഇതിനർത്ഥം നെറ്റ്വർക്ക് കാസ്കേഡ് രീതിയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള നെറ്റ്വർക്കിന്റെ എബിസിഡി പാരാമീറ്റർ ഉപ നെറ്റ്വർക്കുകളുടെ വ്യക്തിഗത എബിസിഡി പാരാമീറ്ററുകളുടെ ഗുണനമാകാം അതിനാൽ നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾക്ക് ത് എഴുതാം ടി ട്രാൻസ്മിഷൻ പാരാമീറ്റർ അല്ലാതെ മറ്റൊന്നുമല്ല ഇതിനെ എബിസിഡി പാരാമീറ്റർ എന്നും വിളിക്കുന്നു ഇത് ട്രാൻസ്മിഷന് കാസ്കേഡ് നെറ്റ്വർക്കിന് വളരെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് അതിനാലാണ് കാസ്കേഡ് നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ സംക്രമണ പാരാമീറ്ററുകൾ വളരെ ഉപയോഗപ്രദമാകുന്നത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മൾ കാണുന്ന മെട്രിക്സുകളുടെ ഗുണനം Na Nb നെറ്റ്വർക്കുകൾ കാസ്കേഡ് ചെയ്യുന്ന ക്രമത്തിലായിരിക്കണം അതിനാൽ b നെറ്റ്വർക്ക് നെറ്റ്വർക്ക് എയ്ക്ക് ശേഷം ആണെങ്കിൽ മാട്രിക്സ് ഗുണനം ആയിരിക്കില്ല നമുക്ക് വളരെ വലിയ നെറ്റ്വർക്ക് ഉള്ളപ്പോഴെല്ലാം അത് ഒരു കൂട്ടം കാസ്കേഡഡ് ടു പോർട്ട് നെറ്റ്വർക്കുകളായി ബന്ധിപ്പിക്കുമ്പോൾ മൊത്തത്തിലുള്ള നെറ്റ്വർക്കിന്റെ ടി പാരാമീറ്റർ വ്യക്തിഗത ഉപ നെറ്റ്വർക്കുകളുടെ എല്ലാ ടി പാരാമീറ്റർ മെട്രിക്സുകളുടെയും ഗുണനമായിരിക്കും അതിനാൽ മൊത്തത്തിലുള്ള വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമായി n ടു പോർട്ട് നെറ്റ്വർക്കുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ എല്ലാ n ടി പാരാമീറ്റർ മെട്രിക്സുകളും കാസ്കേഡഡ് നെറ്റ്വർക്കുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന ക്രമത്തിൽ ഗുണിക്കും ഇപ്പോൾ കുറച്ച് ഉദാഹരണങ്ങളുടെ സഹായത്തോടെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത നെറ്റ്വർക്കിന്റെ പരസ്പരം യോജിപ്പിക്കുന്ന ആശയങ്ങൾ മനസ്സിലാക്കാം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു രണ്ട് പോർട്ട് നെറ്റ്വർക്കിന്റെ ഇസെഡ് പാരാമീറ്ററുകൾ ചിത്രത്തിൽ നൽകിയിരിക്കുന്നു രണ്ടാമത്തെ നെറ്റ്വർക്കിന്റെ ഇസെഡ് പാരാമീറ്റർ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഇവ രണ്ടും ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ നമുക്ക് രണ്ടാമത്തെ രണ്ട് പോർട്ട് നെറ്റ്വർക്കിലെ ഇസെഡ് പാരാമീറ്ററുകൾ എടുക്കാം കാരണം ഇത് നിങ്ങൾ കാണുന്ന രണ്ടാമത്തെ രണ്ട് പോർട്ട് നെറ്റ്വർക്കാണ് മാത്രമല്ല മൊത്തത്തിലുള്ള നെറ്റ്വർക്കിന്റെ ഇസെഡ് പാരാമീറ്റർ ലഭിക്കുന്നതിന് നമുക്ക് ഈ രണ്ട് ഇസെഡ് പാരാമീറ്റർ മെട്രിക്സുകൾ സംഗ്രഹിക്കാം അതിനാൽ ആദ്യ ദൌത്യം മുകളിലെ നെറ്റ്വർക്കിന്റെ ഇസെഡ് പാരാമീറ്ററുകൾ നമുക്ക് അറിയാം അടുത്തതായി താഴെയുള്ള നെറ്റ്വർക്കിന്റെ ഇസെഡ് പാരാമീറ്ററുകൾ കണ്ടെത്തണം ഇപ്പോൾ നിങ്ങൾ ഈ രണ്ട് പോർട്ട് നെറ്റ്വർക്കിനെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇത് ടി നെറ്റ്വർക്കിന്റെ ഒരു രൂപമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും രണ്ടാമത്തെ ടു പോർട്ട് നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ അത് എൻബി ആണെന്ന് പറയട്ടെ എല്ലാ ഘടകങ്ങളും 10 ന് തുല്യമായി ഇസഡ് പാരാമീറ്റർ മാട്രിക്സ് സംഗ്രഹം ചെയ്യാം ആദ്യത്തെ രണ്ട് പോർട്ട് നെറ്റ്വർക്കിനായി നമുക്ക് ഇതിനകം തന്നെ ഇസഡ് പാരാമീറ്ററുകൾ കയ്യിലുണ്ട് അതിനാൽ നമുക്ക് മൊത്തത്തിലുള്ള നെറ്റ്വർക്കിന്റെ Z പാരാമീറ്റർ സ്വതവേ നേടാൻ കഴിയും അതിനാൽ നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക പക്ഷേ കൂടാതെ ഇൻപുട്ട് പോർട്ടിൽ ഔട്ട്പുട്ട് പോർട്ടിൽ മുകളിലുള്ള രണ്ട് ബന്ധങ്ങളെ z പാരാമീറ്ററുകളുടെ ആദ്യ സമവാക്യത്തിലേക്ക് മാറ്റിസ്ഥാപിച്ചാൽ നമുക്ക് ഇത് ലഭിക്കും അതുപോലെ z പാരാമീറ്ററുകളുടെ രണ്ടാമത്തെ സമവാക്യത്തിലെ അതേ ബന്ധങ്ങൾ ഉപയോഗിച്ച് മുകളിലുള്ള രണ്ട് സമവാക്യങ്ങൾ ഉപയോഗിച്ച് അതിനാൽ നിങ്ങൾക്ക് കാണാം ഈ നെറ്റ്വർക്ക് സീരീസിൽ കണക്റ്റുചെയ്തിരിക്കുന്നതിനാൽ തന്നിരിക്കുന്ന സർക്യൂട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് അവയെ രണ്ട് പോർട്ട് ഉപ നെറ്റ്വർക്കുകളായി പരിവർത്തനം ചെയ്യാൻ കഴിയും ഈ പ്രത്യേക ഉദാഹരണത്തിലെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് ഇസെഡ് പാരാമീറ്ററുകൾ ഉപയോഗിക്കാം ഇപ്പോൾ സർക്യൂട്ടിന്റെ Y പാരാമീറ്ററുകൾ കണ്ടെത്തേണ്ട മറ്റൊരു ഉദാഹരണം നോക്കാം അതിനാൽ ഈ രണ്ട് പോർട്ട് ഉപ നെറ്റ്വർക്കുകൾ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നതായി നിങ്ങൾ കാണുകയാണെങ്കിൽ Y പാരാമീറ്ററുകൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും വ്യക്തിഗത ഉപ നെറ്റ്വർക്കുകളുടെ Y പാരാമീറ്ററുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അതിനാൽ വ്യക്തിഗത ഉപ നെറ്റ്വർക്കുകൾ അർത്ഥമാക്കുന്നത് ഒന്ന് ഈ ഉപ നെറ്റ്വർക്കും മറ്റൊന്ന് ഈ ഉപ നെറ്റ്വർക്കുമാണ് അതിനാൽ Y പാരാമീറ്ററുകളുടെ കാര്യത്തിൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ Y പാരാമീറ്ററുകളുടെ വ്യക്തിഗത ഘടകങ്ങൾ നമ്മൾ എങ്ങനെ സംഗ്രഹം ചെയ്യുന്നു നമുക്ക് ഇങ്ങനെ എഴുതാം

അങ്ങനെ ഇപ്പോൾ ഇതുപയോഗിച്ച് നെറ്റ്വർക്കുകളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്ത നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാൻ കഴിയും അതിനാൽ ഈ സെഷനിൽ വലിയ നെറ്റ്വർക്കുകൾ വിശകലനം ചെയ്യുന്നതിനായി നമ്മൾ മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ ചർച്ച ചെയ്ത വിവിധ രണ്ട് പോർട്ട് പാരാമീറ്ററുകൾ പല വിധത്തിൽ പരസ്പരം യോജിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു